ഈ കോഴ്സിലേക്ക്സ്വാഗതം ഇത് ഇലെക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ന്റെ അടിസ്ഥാനം ആണ് ഡിപെൻഡന്റ് സോഴ്സ് എന്താണെന്നും ഇവിടെ പറയുന്നതാണ് അടിസ്ഥാനപരമായ ആശയങ്ങളിൽ നിന്നും നമ്മൾ ആരംഭിക്കുന്നതാണ് പിന്നീട് പതിയെ നാം ആഴത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കും ആദ്യം നാം ഡി സി യുടെ ആശയങ്ങൾ ആയിരിക്കും നോക്കുക പിന്നീട് സിംഗിൾ ഫേസ് അതിനു ശേഷം ത്രീ ഫേസ് അങ്ങനെ എല്ലാം തന്നെ നോക്കുന്നതാണ് അതോടൊപ്പം റെസൊണൻസ് കൂടുതൽ പ്രാധാന്യം തിയറം നും നൽകി പിന്നെ മാഗ്നെറ്റിക് കപ്പിൾ സർക്യൂട് എന്തെന്നും നോക്കുന്നതാണ് പിന്നെ ഫസ്റ്റ് ഇയർ കോഴ്സുകൾ ഏതൊക്കെ ആണോ അതെല്ലാം അതായതു സിംഗിൾ ഫേസ് ട്രാൻസ്ഫോർമർ തുല്യമായ സർക്യൂട് പിന്നെ വോൾടേജ് റെഗുലേഷൻ ഇലെക്ട്രിക്കൽ എഞ്ചിനീറിങ്ങിലെ പല ബ്രാഞ്ചുകൾ ആയ പവർ സിസ്റ്റം കണ്ട്രോൾ സിസ്റ്റം ഇലക്ട്രിക്ക് മെഷീൻസ് ഇൻസ്ട്രുമെന്റഷൻ പിന്നെ ഇലക്ട്രോണിക്സ് പിന്നെ കമ്മ്യൂണിക്കേഷൻ എല്ലാം തന്നെ ഇലക്ട്രിക്ക് സർക്യൂട് തിയറി ആധാരമാക്കിയവ ആണ് അതിനാൽ ഇത് ഇലെക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് ആദ്യസെമസ്റ്റർ അല്ലെങ്കിൽ ആദ്യ വർഷം പഠിക്കുന്നതാണ് അനുയോജ്യം എന്തെന്നാൽ നാം വളരെ ബേസിക് കാര്യങ്ങളിൽ നിന്നും തുടങ്ങണം അതിനാൽ ബേസിക് ഇലക്ട്രിക്ക് സർക്യൂട് തിയറി എന്ന ഈ കോഴ്സ് ഒരു ഇലെക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിക്ക് വളരെ പ്രധാനമാണ് ഒരു ഫസ്റ്റ് സെമസ്റ്റർ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിക്ക് ഇലെക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ അതിൽ ഇലെക്ട്രിക്കൽ ഇലക്ട്രോണിക് പിന്നെ ഇൻസ്ട്രുമെന്റേഷൻ അങ്ങനെ എല്ലാം തന്നെ കവർ ചെയ്യുന്നതാണ് അതിനാൽ എല്ലാവര്ക്കും തന്നെ അതായതു ഏതു സ്പെഷ്യലൈസേഷൻ ആയാലും ആദ്യ വർഷം ഈ കോഴ്സ് എടുക്കാവുന്നതാണ് നാം ഇലെക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് നെ കുറിച്ച് ചിന്തിക്കുകയാണേൽ മനസിലാക്കാം അടിസ്ഥാനപരമായി അത് ഇലെക്ട്രിക്കൽ എനർജി യുടെ ഒരു പോയിന്റ് ൽ നിന്നും മറ്റൊരു പോയിന്റിലേക്കുള്ള കൈമാറ്റം ആണ് അത് ഗാർഹികമായ സർക്യൂട് നോക്കിയാൽ ആദ്യം മനസ്സിലേക്ക് വരുന്ന കാര്യമാണ് പിന്നെ പവർ നിർമാണ സ്റ്റേഷൻ ൽ എവിടെയെങ്കിലുമായി കണ്ടിട്ടും ഉണ്ടാകും പക്ഷെ നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം എന്നത് എനർജി ഒരു പോയിന്റ് ൽ നിന്നും മറ്റൊരു പോയിന്റ് ലേക്ക് മാറ്റുക എന്നതാണ് അതിനായി നമുക്ക് ഇലെക്ട്രിക്കൽ ഡിവൈസുകളുടെ പരസ്പര കണക്ഷൻ ആവശ്യമാണ് ഇങ്ങനെയുള്ള ഈ കണക്ഷനെയാണ് ഇലെക്ട്രിക്കൽ സർക്യൂട് എന്ന് പറയുന്നത് ഞാൻ ഇത് ഇവിടെ അടയാളപ്പെടുത്തുന്നു ഈ ഇലെക്ട്രിക്കൽ ഡിവൈസുകളുടെ ഈ കണക്ഷൻ ആണ് ഇലെക്ട്രിക്കൽ സർക്യൂട് എന്ന് പറയുന്നത് ഈ ഇലെക്ട്രിക്കൽസർക്യൂട് ലെ ഓരോ കോംപോണേന്റും എലമെന്റ് എന്നും അറിയപ്പെടുന്നു യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത് ഇലെക്ട്രിക്കൽ ഡിവൈസുകളുടെ പരസ്പര കണക്ഷൻ ആണ് അത് വയറുകൾ വഴിമാത്രമേ സാധ്യമാകൂ അതായതു കണ്ടക്ട് വയറുകൾ അങ്ങനെയുള്ള പരസ്പര കണക്ഷൻആണ് ഇലെക്ട്രിക്കൽ സർക്യൂട് പിന്നെ ഈ ഇതിലെ ഓരോ കോംപോണേന്റും എലമെന്റ് എന്നും അറിയപ്പെടുന്നു അതിനാൽ പറയാംഇലെക്ട്രിക്കൽ സർക്യൂട് എന്നത് ഇലെക്ട്രിക്കൽ ഡിവൈസുകളുടെ പരസ്പര കണക്ഷൻ ആണ് അതായതു ഇലെക്ട്രിക്കൽ എലമെന്റ് കളുടെ പരസ്പര കണക്ഷൻ നാം ഈ ഫിഗർ 1 ലേക്ക് വരുന്നു അത് ലളിതമായ ഒരു ഇലെക്ട്രിക്കൽ സർക്യൂട് ആണ് ഇതിൽ നാല് അടിസ്ഥാനമായ എലെമെന്റുകൾ ആണുള്ളത് ഈ സർക്യൂട് ലേക്ക് നോക്കൂ ഇതിൽ നാല് അടിസ്ഥാന എലമെന്റുകൾ ഉണ്ട് അതിൽ ഒന്ന് വോൾടേജ് സോഴ്സ് ആണ് നമ്മൾ വളരെ അടിസ്ഥാനമായ കാര്യമാണ് ആരംഭിച്ചത് അതിനാൽ ഇതൊരു വോൾടേജ് സോഴ്സ് ആണ് അതിനെ ബാറ്ററി എന്ന് പറയാം ഈ സിംബൽ നെ പിന്നീട് ബാറ്ററി സിംബൽ എന്ന് പറയുന്നതാണ് ഇത് സ്വിച്ച് ആണ് ഇത് കണ്ടക്ട് ചെയ്യുന്ന മെറ്റീരിയൽing material ഇത് ക്ലോസാണെങ്കിൽ ഇതും ക്ലോസ് പിന്നെ ഇത് ഓപ്പൺ ആണെങ്കിൽ ഇതും ഓപ്പൺ ഇത് യഥാർത്ഥത്തിൽ ഒരു കണ്ടക്ട് ചെയ്യുന്ന വയർ ആണ് ഇത് ഒരു ലാംപ് ആണ് പിന്നെ ഇത് അതിന്റെ ഫിലമെൻറ് നമുക്ക് പറയാം അത് ടങ്സ്റ്റൻ ഉപയോഗിച്ചാണ് നിർമിച്ചിരിക്കുന്നത് ഇത് വളരെ ലളിതമായ സർക്യൂട് ആണ് ഒരു ലാംപ് തെളിയിക്കുന്ന വളരെ ലളിതമായ ഈ സർക്യൂട് ന് ഒരുപാടു ഉപയോഗങ്ങൾ ഉണ്ട് അതായതു ടോർച് ലൈറ്റ് പിന്നെ സെർച്ച് ലൈറ്റ് എന്നിങ്ങനെ അതിനാൽ ഇത് ലളിതമായ ഒരു ഇലക്ട്രിക്ക് സർക്യൂട് ആണ് ഇനി നമുക്ക് ഈ ബാറ്ററി ആയ വോൾടേജ് സോഴ്സ് നോക്കാം ഇവിടെ എന്താണ് സംഭവിക്കുക ഇലെക്ട്രിക്കൽ ചാർജ് അതായതു എലെക്ട്രോൺ നമ്മൾക്കു എലെക്ട്രോൺ എന്ന് എഴുതാം അതിനാൽ ഇത് ഫ്ലോ ചെയ്യുക ഈ ബാറ്ററി യിലെ കെമിക്കൽ ശക്തി ഉപയോഗിച്ചാണ് ഫിസിക്സ് ൽ നാം ബാറ്ററി യെ കുറിച്ചു അല്പമെങ്കിലും പഠിച്ചു കാണുമല്ലോ ഇവിടെ നാം കെമിക്കൽ റിയാക്ഷൻ ഒന്നും തന്നെ നോക്കില്ല അവിടെ നിന്ന് പഠിച്ചത് മാത്രം അതും ആവശ്യമുണ്ടെങ്കിൽ മാത്രം സംസാരിക്കാം അതിനാൽ ഈ ഫ്ലോ സർക്യൂട് ൽ ഉണ്ടാകുന്നത് ഈ കെമിക്കൽ ശക്തി കാരണമാണ് ഈ ബാറ്ററി യിലെ കെമിക്കൽ എനർജി ആണ് ലാംപ് നു പ്രവർത്തിക്കാനുള്ള എനർജി നൽകുന്നത് അതിനാൽ ഈ നെഗറ്റീവ് ചാർജുകൾ എന്തെന്ന് പിന്നീട് പറയുന്നതാണ് അതുകൊണ്ടു ഈ ചാർജുകൾ ക്കു എനർജി ലഭിക്കുന്നത് കെമിക്കലുകൾ ൽ നിന്നാണ് അതും ഈ ബാറ്ററി യിൽ നിന്നും പിന്നീട് അത് ഈ ലാംപ് ലേക്ക് കൊടുക്കുന്നു ഈ ബാറ്ററി വോൾടേജ് എന്നത് ഈ ലഭിച്ച എനർജി യൂണിറ്റ് ചാർജ് നെ അടിസ്ഥാനമാക്കി പറയുന്നതാണ് പിന്നീട് ഈ വോൾടേജ് നെ വേറൊരു തരത്തിൽ വ്യാഖ്യാനിക്കുന്നതാണ് ഇപ്പോൾ ഈ ബാറ്ററി വോൾടേജ് എന്നത് ഒരു യൂണിറ്റ് ചാർജ് നു ലഭിക്കുന്ന എനർജി ആണ് ഇത് ബാറ്ററി യിലൂടെ സഞ്ചരിക്കുന്നതാണ് ഈ സ്വിച്ച് ക്ലോസ് ആണെങ്കിൽ പക്ഷെ ചോദ്യം ഇതാണ് വയറുകൾ കോപ്പർ കണ്ടക്ടർ ഉപയോഗിച്ചാണ് നിർമിച്ചിരിക്കുന്നത് പിന്നെ തമ്മിൽ ഇൻസുലേറ്റർ കോട്ടിങ് ഉപയോഗിച്ച് വേര്തിരിച്ചിരിക്കുന്നു ഇത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതിനാൽ തന്നെ ഇലെക്ട്രോണുകൾ വേഗം തന്നെ ഈ കോപ്പർ കണ്ടക്ടർ ലൂടെ ചലിക്കുന്നതാണ് പക്ഷെ പ്ലാസ്റ്റിക് ഇൻസുലേഷൻ ലൂടെ അതുപോലെ പോകില്ല അതിനാൽ ഈ വയർ ഇവിടെ ഉണ്ട് പക്ഷെ അതൊരു പ്ലാസ്റ്റിക് ഇൻസുലേഷൻ ഉള്ളതാണ് പിന്നെ ഈ സ്വിച്ച് ആണ് ഈ കറന്റ് ഇതുവഴി പോകാൻ അനുവദിക്കുന്നത് ഈ സ്വിച്ച് ക്ലോസ് ചെയ്യുകയാണേൽ കറന്റ് ഇതുവഴി പാസ് ചെയ്യുന്നതാണ് പക്ഷെ ഓപ്പൺ ആണെങ്കിൽ കറന്റ് കറന്റ് പാസ് ചെയ്യില്ല പിന്നെ ഈ ലാമ്പ് ൽ ഉള്ളത് ടങ്സ്റ്റൻ ഫിലമെന്റ് ആണ് എന്നത് മുമ്പ് പറഞ്ഞ കാര്യമാണ് ഇതിനു ഉയർന്ന താപനില നിലനിർത്താൻ കഴിവുള്ളതാണ് അതിനാൽ ടങ്സ്റ്റൻ എന്നത് കോപ്പർ പോലെ ഉള്ള ഇലെക്ട്രിക്കൽ കണ്ടക്ടർ അല്ല അതിനാൽ തന്നെ ഇലെക്ട്രോണുകൾ ടങ്സ്റ്റൻ വയർ ന്റെ ആറ്റം ആയി കോളീഷൻ സംഭവിക്കുന്നതാണ് അതിന്റെ ഫലമായി ടങ്സ്റ്റൻ ചൂട് ആകുന്നു അതിനാൽ നമുക്ക് പറയാം ടങ്സ്റ്റൻ വയർ നു ഇലെക്ട്രിക്കൽ റെസിസ്റ്റൻസ് electrical resistance ഉണ്ട് അതിനാൽ എനർജി എന്നത് ട്രാൻസ്ഫർ ചെയ്തത് ബാറ്ററി യുടെ കെമിക്കൽ പ്രവർത്തനത്തിൽ നിന്നാണ് ആദ്യം അത് ഇലെക്ട്രോണുകളിലേക്കും പിന്നീട് അത് ടങ്സ്റ്റൻ വയർ ലേക്കും ആണ് അവിടെ അത് ഹീറ്റ് ആയി മാറുന്നു അങ്ങനെ വേണ്ട വിധം ഹീറ്റ് ആകുമ്പോൾ അതിൽ നിന്നും വെളിച്ചം വരുന്നതാണ് ഈ അവസരത്തിൽ ഞാൻ ഒരു ചോദ്യം ചോദിക്കുന്നു അതിനു ശേഷം നാം കടന്നു പോകുന്നതാണ് ഈ ഇലക്ട്രോൺ ഫ്ലോ എന്നത് ഈ കോപ്പർ കണ്ടക്ടർ ലൂടെയാണ് നടക്കുന്നത് എന്നാൽ കോളീഷൻ നടക്കുന്നത് ടങ്സ്റ്റൻ വയർ ൽ ആയതിനാൽ ഹീറ്റ് ഉണ്ടാകുന്നതും അവിടെയാണ് അതിൻറെ അർഥം ടങ്സ്റ്റൻ നു ഇലെക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഉണ്ട് എന്നതാണ് ഞാൻ ഇവിടെ ഒരു ചോദ്യം ചോദിക്കുകയാണ് നാം 40 വാട്ട് 60 വാട്ട് 100 വാട്ട് എന്നിങ്ങനെയൊക്കെ ബൾബ് കണ്ടിട്ടുണ്ടല്ലോ അതിനെല്ലാം തന്നെ ടങ്സ്റ്റൻ ഫിലമെൻറ് ആണുള്ളത് ഈ ടങ്സ്റ്റൻ ഫിലമെൻറ് ന്റെ ഡയമീറ്റർ എത്രയൊക്കെയാണ് അത് ഒരു നാണയം പോലെ ആണെങ്കിൽ അതിന്റെ ഡയമീറ്റർ എത്രയാണ് ഇതാണ് ആ ചോദ്യം അപ്പോൾ 40 വാട്ട് അത് എന്തെന്ന് നാം നോക്കുന്നതാണ് ഈ 40 വാട്ട് 60 വാട്ട് 100വാട്ട് അതുകൊണ്ടു എനർജി എന്നത് ബാറ്ററി യിലെ കെമിക്കൽ പ്രവർത്തനം ആണ് എന്തെന്നാൽ ഈ എനർജി എലെക്ട്രോണുകളിലേക്കു പരിവർത്തനം ചെയ്യപ്പെടുന്നു പിന്നെ ഈ ടങ്സ്റ്റൻ ൽ അത് ഹീറ്റ് ആയി മാറ്റപ്പെടുന്നു ഈ ടങ്സ്റ്റൻ ആവശ്യത്തിന് ചൂടായാൽ അത് വെളിച്ചം നൽകുന്നു ഈ ലളിതമായ സർക്യൂട് ന്റെ പിന്നിലുള്ള തത്വം ഇതാണ് ഇതിൽ വളരെ ലളിതമായ ഡിസി സോഴ്സ് പിന്നെ സ്വിച്ച് വയറുകൾ പിന്നെ ടങ്സ്റ്റൻ ലാമ്പ് പിന്നെ അതിന്റെ വാട്ട് 4060 80 ക്ഷമിക്കണം 100 എന്നിങ്ങനെയാണ് ഇനി ഒരു ഇലെക്ട്രിക്കൽ എഞ്ചിനീയർ അറിഞ്ഞിരിക്കേണ്ട അതായതു അളക്കാനാകുന്ന അളവുകളായ വോൾടേജ് കറന്റ് പിന്നെ പവർ എന്നിങ്ങനെയുള്ളവയുടെ യൂണിറ്റ് എന്തെന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ് അവ യഥാക്രമം വോൾട് അമ്പിയർ വാട്ട് എന്നിങ്ങനെയാണ് പിന്നെ ഈ അളവുകൾ എല്ലാം തന്നെ ഒരു സ്റ്റാൻഡേർഡ് ഉപയോഗിച്ച് വേണം നിർണയിക്കാൻ അതിനാൽ എല്ലാ എഞ്ചിനീയറിംഗ് പ്രൊഫഷണൽ കൾക്കും രാജ്യ ഭേദമില്ലാതെ അത് മനസ്സിലാക്കാൻ ആകും അതിനെയാണ് അന്തർദേശിയ സ്റ്റാൻഡേർഡ് സിസ്റ്റം എന്ന് പറയുന്നത് അതിനെ ചുരുക്കിയാണ് യൂണിറ്റ് എന്ന് പറയുന്നത് ഇത് സ്വീകരിച്ചത് 1960 ലെ ജനറൽ കോൺഫറൻസ് ഓൺ വെയിറ്റ്സ് ൽ ആണ് അതിനാൽ നാം പിന്തുടരേണ്ടത് ഈ SI യൂണിറ്റ് ആണ് ഇതിനെ നാം അന്തർദേശീയ യൂണിറ്റ് എന്നാണ് ഈ സിസ്റ്റത്തിൽ 6 അടിസ്ഥാന യൂണിറ്റുകൾ ആണ് ഉള്ളത് അതിൽ നിന്നും വകഭേദം ചെയ്താണ് മറ്റു യൂണിറ്റുകൾ നിർമിച്ചിരിക്കുന്നത് അതിനാൽ ടേബിൾ 1 1 ൽ ഈ 6 അടിസ്ഥാന യൂണിറ്റുകൾ ഏതെന്നു കാണിച്ചിരിക്കുന്നു ഈ SI യൂണിറ്റുകളുടെ സിംബൽ ആണ് ലോകം മുഴുവൻ ഉപയോഗിച്ചിരിക്കുന്നത് ഈ SI യൂണിറ്റുകളുടെ ഒരു പ്രധാന നേട്ടം എന്നത് ഇത് പ്രിഫിക്സ് ഉപയോഗിക്കുന്നു എന്നതാണ് അതിനാൽ പവർ ഉപയോഗിച്ച് ചെറുതും വലുതും ആയ യൂണിറ്റുകളെ ബേസിക് യൂണിറ്റ് ആയി മാറ്റുവാൻ ആകും 2 SI പ്രിഫിക്സുകൾ ഏതൊക്കെ എന്ന് കാണിച്ചിരിക്കുന്നു ഈ സിംബലുകൾ ആദ്യ6 അടിസ്ഥാന SI യൂണിറ്റുകൾ ലേക്ക് ചേർത്തിരിക്കുന്നു അതിനാൽ ഇതാണ് 6 അടിസ്ഥാന യൂണിറ്റുകൾ ഒന്ന് ലൂമിനസ് ഇന്റെൻസിറ്റി അതിന്റെ യൂണിറ്റ് കാന്റല അതിനെ cd എന്ന് വിളിക്കുന്നു പിന്നെ മറ്റൊന്നു തെർമോഡൈനാമിക് ടെമ്പറേച്ചർ അതിന്റെ യൂണിറ്റ് കെൽവിൻ ചുരുക്കി K എന്ന് സംബോധന ചെയ്യും പിന്നെ നീളം മീറ്റർ അതിന്റെ സിംബൽ m പിന്നെ മാസ്സ് അത് കിലോ ഗ്രാം അത് kg പിന്നെ സമയം അത് സെക്കന്റ് ൽ ആണ് പിന്നെ ഇലക്ട്രിക്ക് കറന്റ് അത് ആമ്പിയർ ൽ ആണ് ഇതാണ് 6 SI യൂണിറ്റ് ഇതിൽ നിന്നുമെല്ലാം മറ്റു യൂണിറ്റുകൾ നിര്മിക്കാനാകുന്നതാണ് അതിനാൽ ടേബിൾ 1 2 table 1 2 ൽ നാം SI പ്രിഫിക്സുകൾ കാണും അതിനാൽ ഇത് ഒരുപാട് ഉണ്ട് 1 അല്ലെങ്കിൽ 2 ഞാൻ ഇത് 10 പവർ 18 ആക്കുന്നു ഇതിനെഎക്സ എന്ന് പറയുന്നു അതിന്റെ സിംബൽ E ആണ് ഇത് 1015 പെറ്റ സിംബൽ E പിന്നെ 1012 നെ ടെറാ അത് T പിന്നെ 10 ന്റെ പവർ 9 ഇത് ജിഗാ അത് G അതിനു ശേഷം 10 ന്റെ പവർ 6 അത് മെഗാ അത് M പിന്നെ 103 ഇത് നമുക്ക് തീരെ അപരിചിതമല്ല അത് കിലോ അതിന്റെ സിംബൽ k ആണ് ഇനി ഡെക്ക ഡെസി സെന്റി മില്ലി മൈക്രോ അങ്ങനെ പക്ഷെ അവസാനത്തേത് 10 ന്റെ പവർ 18 ആണ് അതിനെ അറ്റൊ പിന്നെ 10 ന്റെ പവർ 15 ആകുമ്പോൾ അത് ഫെംറ്റോ അത് f പിന്നെ 10 ന്റെ പവർ 12 എന്നത് പൈകോ അത് p ഇത് 1018 മുതൽ 10 18 വരെ ആണ് ഈ സിംബലുകൾ എന്നത് ഈ പ്രിഫിക്സ് കളുമായി ഗുണിക്കുക ആണ് ചെയ്യേണ്ടത് അതിനാൽ ആദ്യ 6 അടിസ്ഥാന SI യൂണിറ്റുകൾ പിന്നെ ഇപ്പോൾ ഈ SI പ്രിഫിക്സ് കൾ ഇതാണ് നാം അറിഞ്ഞിരിക്കേണ്ടത് ഇനി ചാർജും കറന്റും ഇനി ഇലക്ട്രിക്ക് ചാർജ് എന്ന ആശയമാണ് ഒരു ഇലക്ട്രിക്ക് പ്രതിഭാസത്തിന്റെ തത്വം എന്നത് ഒരു ഇലക്ട്രിക്ക് സർക്യൂട് ലെ അടിസ്ഥാന അളവ് എന്നത് ഇലക്ട്രിക്ക് ചാർജ് ആണ് ഈ ഇലക്ട്രിക്ക് ചാർജ് ന്റെ പ്രധാന സവിശേഷതകൾ ആകും നാം ഇവിടെ നോക്കുക അതിനു ശേഷം നമ്മൾ കറന്റ് ലേക്ക് വരുന്നതാണ് അത് ശരിക്കും ചാർജ് ഫ്ലോ യുടെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് ആദ്യത്തേതിലേക്കു നമുക്ക് പോകാം ഈ ചാർജ് എന്നത് ബൈപോളാർ ആണ് അതായതു ഇലക്ട്രിക്ക് ചാർജ് ന്റെ ഫലങ്ങൾ നാം അനുഭവിക്കുക പോസിറ്റീവ് പിന്നെ നെഗറ്റീവ് എന്നിങ്ങനെ ആണ് അതിനാൽ ചാർജ് എന്നത് ബൈപോളാർ ആണ് ഇലക്ട്രിക്ക് ചാർജ് ന്റെ ഫലങ്ങൾ നാം അനുഭവിക്കുക പോസിറ്റീവ് പിന്നെ നെഗറ്റീവ് എന്നിങ്ങനെ ആണ് അടുത്താണ് എക്സ്പൊനെൻഷ്യൽ ഈ പ്രകൃതിയിൽ കാണപ്പെടുന്ന ചാർജുകൾ എന്നത് ഇലക്ട്രോൺ ന്റെ ചാർജ് ന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആണ് ഇലക്ട്രോൺ ന്റെ ചാർജ് എന്നത് e ആണ് ഇത് നാം 12 ക്ലാസ് ഫിസിക്സ് ൽ പഠിച്ചതാണ് അപ്പോൾ e യുടെ വാല്യൂ 1 602 10 ന്റെ പവർ 19 ആണ് ഈ ചാർജ് മാത്രമാണ് പ്രകൃതിയിൽ നിലനിൽക്കുന്നത് അല്ലെങ്കിൽ ഇതിന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഇനി മൂന്നാമത്തെ പോയിന്റ് എന്നത് ചാർജുകളുടെ വേർതിരിവും പിന്നെ ചലനവും ആണ് നാലാമത്തെ പോയിന്റ് ചാർജുകളുടെ സംരക്ഷണം ആണ് അതിന്റെ അർഥം ചാർജ് നിർമിക്കുവാനോ നശിപ്പിക്കുവാനോ സാധിക്കില്ല എന്നതാണ് അത് സ്ഥാന മാറ്റം ചെയ്യാനേ പറ്റൂ അതിനാൽ നിർമിക്കുവാനോ നശിപ്പിക്കുവാനോ സാധിക്കില്ല പിന്നെ സ്ഥാന മാറ്റം ചെയ്യാനേ പറ്റൂ അതിനാൽ ഒരു സിസ്റ്റത്തിലെ ചാർജുകളുടെ തുക ഒരിക്കലും മാറില്ല ഈ നാലാമത്തേത് വളരെ പ്രധാനമാണ് അതിനാൽ അത് മനസ്സിൽ സൂക്ഷിക്കുക നാം നമ്മുടെ കമ്പിളി വസ്ത്രം ഉപയോഗിക്കുമ്പോൾ ഈ ഇലക്ട്രിക്ക് ചാർജ് ന്റെ ഫലം അനുഭവപ്പെടുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത് ചിലപ്പോൾ ഈ കമ്പിളി വസ്ത്രം നമ്മുടെ ശരീരത്തിലേക്ക് ഒട്ടിപ്പിടിച്ചിട്ടിരിക്കുന്നതായി അനുഭവപ്പെടാറുണ്ടല്ലോ ചിലപ്പോൾ കാർപെറ്റ് ലൂടെ നടക്കുമ്പോൾ ഷോക്ക് അടിക്കാറുണ്ട് ഇത് ചാർജ് ന്റെ ഒരു അനുഭവം ആണ് അതിനാൽ ചാർജ് എന്നത് അറ്റോമിക് പാർട്ടിക്കിൾ കളുടെ ഒരു ഇലെക്ട്രിക്കൽ പ്രോപ്പർട്ടി ആണ് അത് അളക്കുന്നത് കുളം ൽ ആണ് അതായതു ചാർജിന്റെ യൂണിറ്റ് എന്നത് കുളം ആണ് അതായതു ചാർജ് എന്നത് അറ്റോമിക് പാർട്ടിക്കിൾ കളുടെ ഒരു ഇലെക്ട്രിക്കൽ പ്രോപ്പർട്ടി ആണ് അത് അളക്കുന്ന യൂണിറ്റ് ആണ് കുളം ഇനി ഈ ഇലക്ട്രിക്ക് ചാർജ് കളുടെ ഫ്ലോ ശ്രദ്ധിക്കുക അത് യഥാർത്ഥത്തിൽ ഇങ്ങനെ ആണ് നിങ്ങൾ ഈ പേജ് നമ്പർ ശ്രദ്ധിക്കരുത് ഇലക്ട്രിക്ക് ചാർജ് കളുടെ ഒരു പ്രധാന സവിശേഷത എന്നത് അവയ്ക്കു ഒരു സ്ഥാനത്തു നിന്നും മറ്റൊരിടത്തേക്ക് മാറാനാകും എന്നതാണ് അതിന്റെ അർഥം ഇത് ചലനാത്മകം ആണ് എന്നതാണ് അതിനാൽ എനർജി ഒരു പോയിന്റ് ൽ നിന്നും മറ്റൊന്നിലേക്കു മാറ്റുവാനാകും അങ്ങനെ ഉള്ള ഈ ചാർജുകളുടെ ഫ്ലോ ആണ് കറന്റ് നമുക്ക് കാണാനാകുന്ന രീതി എന്നത് കണ്ടക്റ്റിംഗ് വയർ conducting wire നെ ഒരു ആറ്റങ്ങളുടെ കൂട്ടമായും പിന്നെ ബാറ്ററി യെ ഇലെക്ട്രോമാഗ്നെറ്റിക് ഫോഴ്സ് ആയി കാണുക എന്നതുമാണ് അതിനാൽ കണ്ടക്റ്റിംഗ് വയർ conducting wire ൽ ആറ്റങ്ങളുടെ കൂട്ടവും പിന്നെ ബാറ്ററി എന്നത് ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് ന്റെ സോഴ്സ് ഉം ആണ് കണ്ടക്റ്റിംഗ് വയർ conducting wire ബാറ്ററി യുമായി ബന്ധിപ്പിക്കുക പിന്നെ ഈ സ്വിച്ച് പിന്നെ ഈ ലാമ്പ് ഇവിടെ എപ്പോൾ ബാറ്ററി യും കണ്ടക്റ്റിംഗ് വയർ conducting wire ഉം തമ്മിൽ ബന്ധിപ്പിക്കുമോ അപ്പോൾ ചാർജുകൾ ചലിക്കുവാനായി നിർബന്ധിക്കപ്പെടുന്നു എന്താണ് സംഭവിക്കുക ചാർജുകൾ ചലിക്കുന്നു പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും രണ്ടു ദിശയിൽ ആയിരിക്കും സഞ്ചരിക്കുക ലളിതമായി പറയാം ഇതാണ് ഇലക്ട്രിക്ക് കറന്റ് electric current ഇനി ഏതു ചാർജ് ന്റെ ദിശയാണ് കറന്റ് ന്റെ ദിശയായി എടുക്കേണ്ടത് പരമ്പരാഗതമായി പോസിറ്റീവ് ചാർജ് ന്റെ ഡയറക്ഷൻ ആണ് കറന്റ് എന്ന് എടുക്കുന്നത് അതായതു നെഗറ്റീവ് ചാർജ് ന്റെ വിപരീത ദിശ അതാണ് അടുത്ത ഫിഗർ ൽ കാണിച്ചിരിക്കുന്നത് ഇനി ഇവിടെ നോക്കുക ഈ ബാറ്ററി ഇവിടെ വലുതാക്കി ആണ് കാണിച്ചിരിക്കുന്നത് അത് ചാർജ് എങ്ങനെ ഫ്ലോ ചെയ്യും എന്ന് മനസ്സിലാക്കാൻ ആണ് ഇവിടെ ശരിക്കും നെഗറ്റീവ് ചാർജ് ആണ് ഫ്ലോ ചെയ്യുന്നത് ഇതാണ് നെഗറ്റീവ് ടെർമിനൽ പിന്നെ ഇതാണ് പോസിറ്റീവ് ടെർമിനൽ അതിനാൽ ചാർജ് എന്നത് ഈ പോസിറ്റീവ് ടെർമിനൽ ലേക്കാണ് ഫ്ലോ ചെയ്യുക അതിനാൽ കറന്റ് ന്റെ ഡയറൿഷൻ എന്നത് ഈ നെഗറ്റീവ് ചാർജ് ന്റെ ഡയറൿഷൻ നു വിപരീതമാണ് ഇതാണ് നെഗറ്റീവ് ചാർജ് ഫ്ലോ ചെയ്യുന്ന ഡയറൿഷൻ അപ്പോൾ ഇത് ഈ വഴി ആണ് പോകുക ഇതാണ് നാം സ്വീകരിച്ചു വരുന്ന രീതി അത് നാം നോക്കിയാൽ മനസ്സിലാകും കറന്റ് ന്റെ ഡയറൿഷൻ എന്നത് ഈ നെഗറ്റീവ് ചാർജ് ന്റെ ഡയറൿഷൻ നു വിപരീതമാണ് അതാണ് ഫിഗർ 1 2 ൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ പോസിറ്റീവ് ചാർജ് ന്റെ ഡയറൿഷൻ എന്നത് ആണ് കറന്റ് ന്റെ ഡയറൿഷൻ ചാർജിന്റെ ഫലം എന്നത് അതിന്റെ ഫ്ലോ യുടെ റേറ്റ് നെ ആശ്രയിച്ചിരിക്കും ഈ ഫ്ലോ യുടെ റേറ്റ് നെ ആണ് ഇലക്ട്രിക്ക് കറന്റ് എന്ന് പറയുന്നത് ഈ q എന്നത് ചാർജ് ആണെങ്കിൽ പിന്നെ t എന്നത് സമയം പിന്നെ i എന്നത് കറന്റ് അപ്പോൾ i എന്നത് dqdt ആണ് മാത്തമറ്റിക്കൽ ആയി നോക്കിയാൽ കറന്റ് ടൈം പിന്നെ ചാർജ് എന്നിവ തമ്മിലുള്ള ബന്ധം എന്നത് i dqdt ആണ് ഇതാണ് ഇക്വഷൻ 1 i എന്നത് കറന്റ് ആംപിയറിൽ പിന്നെ q എന്നത് ചാർജ് കുളം ൽ പിന്നെ t എന്നത് ടൈം അത് സെക്കന്റ് ൽ അതിനാൽ ഈ കറന്റ് എന്നത് dqdt നാം നോട്ട് ചെയ്യേണ്ട കാര്യം 1 അമ്പിയർ എന്നത് 1 കുളം പേർ സെക്കന്റ് ആണ് അതിന്റെ അർഥം ഈ സൈഡിൽ 1 ആംപിയർ ആണെങ്കിൽ ഇവിടെയും 1 ആകണം ഇത് കുളം പിന്നെ ഇത് സെക്കന്റ് അതിനാൽ ഇത് 1 കുളം പേർ സെക്കന്റ് നമുക്ക് വേണ്ട ഡാറ്റ ഇങ്ങനെ എടുക്കാം അതായതു dq എന്നത് 5 അതോടൊപ്പം dt യും 5 അതായതു നമ്മുടെ വാല്യൂ എന്നത് 1 കുളം പേർ സെക്കന്റ് ആയിരിക്കും അതായതു ടൈം എന്നത് 0 യുടെയും t യുടെയും ഇടയിൽ ആകുമ്പോൾ ചലിക്കപ്പെടുന്ന ചാർജ് എന്നത് ലഭിക്കുക ഈ ഇക്വേഷൻ ന്റെ രണ്ടു സൈഡും ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആണ് അതായതു ആദ്യ ടൈം എന്നത് 0 യും പിന്നെ അവസാന ടൈം എന്നത് t യും ആണേൽ ഈ ഇക്വേഷൻ നെ 0 മുതൽ t വരെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട ചാർജ് ലഭിക്കും നമുക്കറിയാം dq i dt ആണ് അത് കൊണ്ട് q എന്നത് i dt യുടെ ഇന്റഗ്രൽ ആയിരിക്കും നാം എഴുതുന്ന ഇക്വേഷൻ q 0 റ്റു idt ഇതിന്റെ അർഥം ചാർജ് കൈമാറ്റം ചെയ്യുന്നത് ടൈം 0 മുതൽ t വരെയാണ് അതിന്റെ അർഥം ഇക്വേഷൻ 1 പറയുന്നത് ഈ കറന്റ് എന്നത് സ്ഥിര വാല്യൂ ഉള്ള ഒരു ഫങ്ക്ഷൻ ആയിരിക്കണം ഈ സ്ഥിര വാല്യൂ ഉള്ള ഒരു ഫങ്ക്ഷൻ എന്നത് എന്താണെന്നു നാം പിന്നീട് പഠിക്കുന്നതാണ് പലതരത്തിൽ കറന്റ് ഉണ്ടാകാം അതായതു ചാർജ് മാറുന്നത് പല വിധത്തിൽ ആകാം നാം ac യും dc യും നോക്കുന്നതാണ് ac യെ സംബന്ധിച്ച് കറന്റ് എന്നത് മാറിക്കൊണ്ടിരിക്കുന്നു എന്നാൽ dc യുടെ കാര്യത്തിൽ കറന്റ് സ്ഥിരമാണ് കറന്റ് എന്നത് സമയത്തിനനുസരിച്ചു സ്ഥിരമാകുമ്പോൾ നമുക്ക് പറയാം അത് ഡയറക്ട് കറന്റ് ആണ് അതായതു dc കറന്റ് അതായതു ഡയറക്ട് കറന്റ് എന്നത് സമയത്തിനനുസരിച്ചു സ്ഥിരമാണ് ഞാൻ ഇവിടെ അർത്ഥമാക്കുന്നത് സമയം എന്ത് തന്നെ ആയാലും കറന്റ് സ്ഥിരമാണ് നേരെമറിച്ചു സമയത്തിനനുസരിച്ചു മാറുന്ന കറന്റ് ആണെങ്കിൽ അതോടൊപ്പം ഡയറക്ഷൻ ക്രമമായി മാറുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ആൾട്ടർനേറ്റിംഗ് കറന്റ് എന്നാണ് വിളിക്കുക ഈ ആൾട്ടർനേറ്റിംഗ് കറന്റ് നാം ac സർക്യൂട് പഠിക്കുമ്പോൾ ആണ് നോക്കുക എന്നാലും മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ കുറച്ചു കാര്യങ്ങൾ പറയാം അതായത് ആൾട്ടർനേറ്റിംഗ് കറന്റ് എന്നത് സമയത്തിനനുസരിച്ചു മാറുകയും അതോടൊപ്പം ക്രമമായി ഡയറൿഷൻ തിരിയുകയും ചെയ്യും എന്നിങ്ങനെ ആയിരിക്കും നമ്മുടെ ഗാർഹിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് ആൾട്ടർനേറ്റിംഗ് കറന്റ് ആണ് നാം ac സർക്യൂട് കൾ പിന്നീട് പഠിക്കുന്നതാണ് ആദ്യം നമുക്ക് dc നോക്കാം ac നാം ഉപയോഗിക്കുക റെഫ്രിജറേറ്റർ ടോസ്റ്റർ എയർ കണ്ടിഷണർ അങ്ങനെയുള്ള ഇലെക്ട്രിക്കൽ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാനാണ് ഈ ac എല്ലാം പ്രതിപാദിക്കുന്നതു ac പവർ വോൾടേജ് പിന്നെ കറന്റ് എന്നിവയാണ് പക്ഷെ dc യുടെ കറന്റ് കോൺസ്റ്റന്റ് ആണ് ഫിഗർ 1 3 യിൽ കാണിച്ചിരിക്കുന്നത് dc യും പിന്നെ സൈൻ ആയ ac യും ആണ് ഇവിടെ നാം വേവ് നെ കുറിച്ച് അല്പം മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് സൈനുസോയിടൽ വേവ് ആണ് അതാണ് ഫിഗർ 1 3 യിൽ കാണിച്ചിരിക്കുന്നത് അതിനാൽ ഇത് dc കറന്റ് ഇത് കറന്റ് പിന്നെ ഇത് ടൈം അത് സെക്കൻഡിൽ ആണ് ഇത് സ്ഥിരമായ കറന്റ് dc ആണ് ഇവിടെ ഇത് സ്ഥിരമായ 3 ആംപിയർ ആണ് ഇത് ക്രമമായ ഒരു വസ്തുത ആണ് ഇത് ൽ നിന്നും ലേക്ക് ക്രമമായി മാറിക്കൊണ്ടിരിക്കുന്നു അതിനാൽ ഇത് ac കറന്റ് ആണ് ഇതൊരു കോസൈൻ ഫങ്ക്ഷൻ ആണ് ഇതിന്റെ ac കറന്റ് എന്നത് i say cos2πt ആണ് ഈ ac നാം പിന്നെ നോക്കുന്നതാണ് ഇത് dc കറന്റ് നു ഒരു ഉദാഹരണം ആണ് ഇനി ഫിഗർ 1 4 നോക്കുക ഇത് മറ്റൊരു തരത്തിലുള്ള വേരി ചെയ്യുന്ന കറന്റ് ആണ് ഇത് ട്രയൻകുലാർ പിന്നെ സ്കയർ എന്നിങ്ങനെ ഉള്ള വേവ് ആണ് ഇതും സമയത്തിനനുസരിച് മാറുന്നതാണ് ഇതൊരു ട്രയൻകുലാർ ഫങ്ക്ഷൻ ആണ് ഇത് കറന്റ് ആണ് പിന്നെ ഇത് റെക്ടഅംഗുലർ ഫങ്ക്ഷന് ആണ് ഇതും ക്രമമായി മാറുന്നതാണ് ഇത് രണ്ടും ആൾട്ടർനേറ്റിംഗ് കറന്റ് ആണ് നാം നേരത്തെ കണ്ടത് പോലെ കറന്റ് ന്റെ ഡയറക്ഷൻ എന്നത് പരമ്പരാഗതമായി പോസിറ്റീവ് ചാർജ് ന്റെ ചലത്തിന്റേതാണ് നാം ബാറ്ററി യുടെ സിംബൽ എടുത്താൽ ഈ ൽ നിന്നാണ് പോസിറ്റീവ് ചാർജ് ഫ്ലോ ചെയ്യുന്നത് അതിനാലാണ് ഇത് പോസിറ്റീവ് ചാർജ് ന്റെ ചലനം എന്ന് പറയുന്നത് അതിനാൽ ഈ കീഴ്വഴക്കം അനുസരിച്ചു ഈ കറന്റ് 4 ആംപിയർ പോസിറ്റീവ് ആയും അല്ലെങ്കിൽ നെഗറ്റീവ് ആയും പ്രതിനിതീകരിക്കാം ഇതാണ് ഫിഗർ 1 5 ൽ കാണിച്ചിരിക്കുന്നത് ഇതിൽ ഒരു ലാമ്പ് ബാറ്ററി ക്കു നേരെ ബന്ധിപ്പിച്ചിരിക്കുന്നു ഇതിൽ നിന്നും നാം മനസ്സിലാക്കിയാൽ ഇനിയുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ വളരെ ലളിതമായി മനസ്സിലാക്കാൻ ആകും നാം എന്താണ് ചെയ്യേണ്ടത് വളരെ ബേസിക് ആയ ഈ ഫ്ലോ ആണ് നാം മനസ്സിലാക്കാൻ ശ്രമിച്ചത് അത് ഇപ്പോൾ വ്യക്തമാണ് അതിനു ശേഷം നാം സർക്യൂട് തിയറി ഈസി ആയി തന്നെ മനസ്സിലാക്കു൦ ഉദാഹരണം ഇത് ബാറ്ററി പിന്നെ ഇത് അതിന്റെ സിംബൽ ഇനിയുള്ള കാര്യങ്ങൾ പിന്നീട് പഠിക്കുന്നതായിരിക്കും ഇവിടെ ഒരു ബാറ്ററി ഉണ്ട് ഇത് സിംബൽ പിന്നെ ഇത് സിംബൽ ഈ ടെർമിനലുകൾ മാർക്ക് 1 പിന്നെ മാർക്ക് 2 ഇത് ടങ്സ്റ്റൻ ലാംപ് നാം 4 ആമ്പിയർ കറന്റ് ആണ് ഇവിടെ ഉള്ളത് എന്ന് അനുമാനിക്കുന്നു അത് 1 ൽ നിന്നും 2 ലേക്കാണ് അപ്പോൾ 2 ൽ നിന്നും 1 ലേക്ക് എത്ര ആയിരിക്കും അത് 4 ആയിരിക്കും എന്തെന്നാൽ അത് വിപരീത ദിശ ആണ് അപ്പോൾ I12 എന്നത് 4 ആമ്പിയർ പിന്നെ I21 എന്നത് 4 ആമ്പിയർ ഉം ആയിരിക്കും ഇതിൽ I12 എന്നത് 4 ആമ്പിയർ ആണ് അതിന്റെ അർഥം 1 ൽ നിന്നും 2 ലേക്ക് ലാമ്പ് ലൂടെ യുള്ള കറന്റ് എന്നത് 4 ആമ്പിയർ ആണ് നാം അടുത്ത ദിശ നോക്കുകയാണെങ്കിൽ ഇത് തിരിയും അതായതു 2 ൽ നിന്നും 1 ലേക്കാണെങ്കിൽ ഇത് വിപരീത ദിശയിൽ ആകും അപ്പോൾ കറന്റ് 4 ആമ്പിയർ ആയിരിക്കും നമുക്ക് ഇവിടെ I12 പിന്നെ ഇത് I21 അതുകൊണ്ട് I21 എന്നതിന്റെ റഫറൻസ് ഡയറക്ഷൻ 2 ൽ നിന്നും 1 ലേക്കാണ് എന്നതിൽ ഇതിന്റെ രണ്ടിന്റെയും മാഗ്നിറ്റുഡ്ഡ് ഒന്ന് തന്നെ ആണ് പക്ഷെ ദിശ വിപരീതം ആണ് അതിനാൽ ഇവ ഒരേ കറന്റ് തന്നെ ആണ് അതിനാൽ I12 I21 4 ആമ്പിയർ എന്നാൽ I12 എന്നത് 4 ആമ്പിയർ I21 എന്നത് 4 ആമ്പിയർ ഉം ആണ് അതാണ് ഇക്വേഷൻ 1 3 യിൽ ഉള്ളത് ഇത് വളരെ ലളിതമായ ഭാഗം ആണ് മനസ്സിലാക്കാനാകുന്നതാണ് നേരെയുള്ള റഫറൻസ് ഡയറക്ഷൻ എന്നത് 1 ൽ നിന്നും 2 ലേക്കാണ് അത് 4 ആമ്പിയർ ആണ് ഇനി റഫറൻസ് ഡയറക്ഷൻ എന്നത് 2 ൽ നിന്നും 1 ലേക്ക് ആക്കിയാലോ അപ്പോൾ കറന്റ് എന്നത് 4 ആമ്പിയർ ആകുന്നു അതിനാൽ I12 I21 4 ആമ്പിയർ ആണ് ഇപ്പോൾ നിങ്ങൾ കറന്റിനെ പറ്റി മനസ്സിലാക്കിയല്ലോ ഇനി വോൾടേജ് ഇനി കറന്റ് നു പകരം വോൾടേജ് ആണ് മുമ്പ് പറഞ്ഞത് പോലെ ഒരു ഇലക്ട്രോൺ നെ കണ്ടക്ടർ ലൂടെ നീക്കാൻ നമുക്ക് ഒരു വർക്ക് അല്ലെങ്കിൽ എനർജി വേണം ഇത് ചെയ്യുന്നത് പുറമെയുള്ള ഇലക്ട്രിക്ക് ആയുള്ള ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് അഥവാ emf ആണ് അതാണ് ബാറ്ററി ആയി പ്രതിനിതീകരിച്ചിരിക്കുന്നതു അതാണ് ഫിഗർ 1 2 ൽ കൊടുത്തിരിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ പുറമെയുള്ള ഇലക്ട്രിക്ക് ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് emf ആണ് ഈ ഫിഗർ 1 2 ൽ പറയുന്നു ഇതൊരു വോൾടേജ് സോഴ്സ് ആണ് ഈ emf എന്നത് പൊട്ടൻഷ്യൽ ഡിഫറെൻസ് എന്നും പറയും ചിലപ്പോൾ വോൾടേജ് എപ്പോളൊക്കെ പോസിറ്റീവ് നെഗറ്റീവ് ചാർജുകൾ തമ്മിൽ വേർതിരിയുമോ അപ്പോഴൊക്കെ എനർജി കൂടും അതിനാൽ emf നെ പൊട്ടൻഷ്യൽ ഡിഫറെൻസ് എന്നും പറയുന്നു അതോടൊപ്പം വോൾടേജ് എപ്പോളൊക്കെ പോസിറ്റീവ് നെഗറ്റീവ് ചാർജുകൾ തമ്മിൽ വേർതിരിയുമോ അപ്പോഴൊക്കെ എനർജി കൂടും അതിനാൽ ഈ വോൾടേജ് എന്നത് യൂണിറ്റ് ചാർജ് ന്റെ എനർജി ആണ് അപ്പോൾ പോയിന്റ് 1 ന്റെയും 2 ന്റെയും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറെൻസ് എന്നത് V12 ഇതൊരു ഇലക്ട്രിക്ക് സർക്യൂട് ആണെന്ന് തന്നെ പറയാം ഇത് യഥാർത്ഥത്തിൽ 2 പോയിന്റുകൾ ആണ് ഇത് പോയിന്റ് 1 പിന്നെ ഇത് പോയിന്റ് 2 ഇതാണ് അപ്പോൾ V12 എന്ന വോൾടേജ് പിന്നെ ഇത് ലാംപ് നാം പോയിന്റ് 1 ന്റെയും 2 ന്റെയും ഇടയിലുള്ള ഈ V12 എന്ന വോൾടേജ് പരിഗണിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഇത് ഒരു യൂണിറ്റ് ചാർജ് നെ 1 ൽ നിന്നും 2 ലേക്ക് നീക്കാൻ വേണ്ട എനർജി ആണ് ഇത് നാം ഡിഫറെൻഷ്യൽ രീതിയിൽ പറയാം b സ്മാൾ v V12 സഫിക്സ് d w dq ഇതിൽ w എന്നത് എനർജി ജൂൾസ് ൽ പറയുന്നതാണ് പിന്നെ q എന്നത് ചാർജ് കുളം ൽ പറയുന്നതാണ് പിന്നെ V12 എന്നത് വോൾടേജ് അത് വോൾട്ടിൽ ആണ് പറയുക അപ്പോൾ വോൾടേജ് V12 എന്നത് dwdqആണ് ഈ ഇക്വേഷനിൽ ഇത് ഇക്വേഷൻ 1 4 ആണ് നമുക്ക് മനസിലാക്കാം ഈ സൈഡ് 1 വോൾട് ആണെങ്കിൽ ഈ സൈഡ് 1ജൂൾ പേർ കുളം ആയിരിക്കും ഇനി ഒരു ജൂൾ എന്നത് 1 ന്യൂട്ടൺ മീറ്റർ Newton meter അതായതു 1 ന്യൂട്ടൺ മീറ്റർ Newton meter പേർ കുളം പക്ഷെ നാം ഉപയോഗിക്കുന്നത് ജൂൾ പേർ കുളം ആയിരിക്കും അതിനാൽ വോൾടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറെൻസ് എന്നത് ഒരു യൂണിറ്റ് ചാർജിനെ ചലിപ്പിക്കുവാൻ വേണ്ട എനർജി ആണ് ഇത് തന്നെയാണ് വോൾടേജ് ന്റെ പുറകിലുള്ള തത്വം ഇനി ഈ ഫിഗർ 1 6 നോക്കുക ഇവിടെ സോഴ്സ് വോൾടേജ് കണക്ട് ചെയ്തിരിക്കുന്നത് പോയിന്റ് 1 ന്റെയും 2 ന്റെയും ഇടയിലാണ് അവിടെ തന്നെ ആണ് ലാംപ് കണക്ട്ചെയ്തിരിക്കുന്നത് പിന്നെ സിംബൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു ഇതാണ് ഇവിടെ പൊളാരിറ്റി അതായതു 1 പിന്നെ 2 1 എന്നത് പോസിറ്റീവ് ആണ് 2 നെഗറ്റീവ് നാം വോൾടേജ്ഇന്റെ റഫറൻസ് പൊളാരിറ്റി ആണ് ഉപയോഗിച്ചിരിക്കുന്നത് വോൾടേജ് V12 എന്നത് 2 രീതിയിൽ വ്യഖ്യാനിക്കാം ആദ്യം ഈ പോയിന്റ് 1 എന്നത് 2 നെ സംബന്ധിച്ചു ഉയർന്ന പൊട്ടൻഷ്യൽ ആണെന്ന് കണക്കാക്കാം ഈ ചിത്രം നോക്കുക ഇതിൽ V12 എന്നത് പോയിന്റ് 1 ഉയർന്നതാണ് അതിന്റെ അർഥം പോയിന്റ് 1 എന്നത് V12 ഓളം ഉയർന്നാണ് പോയിന്റ് 2 നെ സംബന്ധിച്ചു അല്ലെങ്കിൽ പോയിന്റ് 1 ലെ വോൾടേജ് പോയിന്റ് 2 നെ സംബന്ധിച്ചു V12 ആണ് രണ്ടാമത്തേത് ഓർത്തിരിക്കാൻ എളുപ്പമാണ് ഇതാണ് എന്നിവയുടെ കൺസെപ്റ് ഇവിടെ ഒന്നുകിൽ പോയിന്റ് 1 എന്നത് 2 നെ സംബന്ധിച്ച് V12 ഉയർന്നതാണ് അല്ലെങ്കിൽ പോയിന്റ് 1 ലെ വോൾടേജ് പോയിന്റ് 2 നെ സംബന്ധിച്ചു V12 ആണ് നന്ദി നമുക്ക് വീണ്ടും തിരിച്ചു വരാം